ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ജീവിതചക്ര മാതൃകയെ കുറിച്ച് പ്രത്യേകിച്ച് പ്രാചീന വാട്ടർഫാൾ മോഡലിനെ കുറിച്ചും ജീവിതചക്ര മാതൃകയുടെ ഭാഗമായി വികസന പ്രക്രിയയിൽ ഏറ്റെടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ കുറച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു സാധ്യതാ പഠനത്തിനായി നമ്മൾ കുറച്ചു സമയം ചിലവഴിച്ചു ഇത് ഒരു കേസ് പഠനത്തിൻറെ സഹായത്തോടെ പ്രോജക്ട് മാനേജർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന പ്രവർത്തനമാണ് സാധ്യതാ പഠനത്തിന് ഇടയിലും അവസാനത്തിലും പ്രോജക്ട് മാനേജർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ബിസിനസ് കേസ് എഴുതിയ സാധ്യതാപഠനം ബിസിനസ് എഴുതുന്നതിനുള്ള പ്രാരംഭ പ്രക്രിയ കളിലൊന്നാണ് ഇത്ഫലപ്രദമായ ഒരു ബിസിനസ് കേസ് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ കണ്ടു അവസാനം പ്രഭാഷണം നടത്തിയ ചർച്ചയിൽ അടിസ്ഥാനമാക്കി നമുക്ക് ഈ പ്രഭാഷണത്തിൽ കൂടുതൽ മുന്നോട്ടു പോകാം ഇപ്പോൾ ഈ പ്രഭാഷണത്തിൻറെ പദ്ധതിയിൽ നമ്മൾ ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മോഡൽ വി മോഡൽ എവൊല്യൂഷണറി മോഡൽ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യും പ്രാചീന വാട്ടർഫാൾ മോഡൽ ഒരു മാതൃകാപരമായ മാതൃകയാണ് പ്രധാന കുഴപ്പം ഏത് ഫേസ് ഓരോ ഫേസ് വും പൂർത്തിയാക്കുകയും അടുത്തഫേസ് ആരംഭിക്കുകയും അങ്ങനെ പദ്ധതി പൂർത്തിയാകുന്നത് വരെ ഒരു തകരാറും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഫലത്തിൽ ധാരാളം വൈകല്യങ്ങൾ ഉണ്ട് ജീവിത ചക്രത്തിൻറെ മിക്കവാറും എല്ലാ ഫേസ് ങ്ങളിലും അവതരിപ്പിച്ചു അതുകൊണ്ടാണ് ഒരു വൈകല്യം തിരിച്ചറിയാൻ മുമ്പത്തെ ഫേസ് മടങ്ങേണ്ട ആവശ്യം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ഡിസൈൻ ഫേസ്ൽ ഒരു ആവശ്യകത കാണുന്നില്ലെന്നും തുടർന്ന് ആവശ്യകതകളുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതായി ആവശ്യപ്പെട്ട് റുക്വിർമെൻറ് സ്പെസിഫിക്കേഷൻ ഡോക്യൂമെൻറ് വീണ്ടും രൂപകല്പന ചെയ്യണം എന്നും പിന്നീട് ഡിസൈൻ ഫേസ് ത്ലേക്ക് മടങ്ങിവരാം എന്നും ഡിസൈൻ ഫേസ് ൽ ഒരു വൈകല്യം തിരിച്ചറിയാൻ കഴിയും അതിനാലാണ് ആണ് നമുക്ക് ഫീഡ്ബാക്ക് പാത്തു ആവശ്യമാണ് ഒരു ഫേസ് ത്തിൽ തകരാറുണ്ടായാൽ ഒരു ഡെവലപ്പർക്ക് ഒരു തെറ്റ് സംഭവിക്കുന്നുവെങ്കിൽ അത് പിന്നീടുള്ള ഫേസ് വരെ ശ്രദ്ധിക്കപ്പെടാതെ തുടരും പിന്നീടുള്ള ഫേസ് ൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നീക്കം ചെയ്യപ്പെടും എന്നാൽ ഇവിടെയുള്ള ചോദ്യം ഈ തകരാർ പരിഹരിക്കുന്നതിന് എത്ര ഫേസ് പിന്നിടുന്നോ അത്രയും ചിലവേറിയതാകാൻ കാരണം എന്താണ് ഉത്തരം വളരെ ദൂരെയല്ല കാരണം വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും അത് ഉടനടി നീക്കം ചെയ്യുകയും ചെയ്താൽ ഏറ്റവും നല്ലത് കാരണം ചുരുങ്ങിയ ചെലവ് ഉണ്ടാകുകയുള്ളൂ എന്നാൽ ഒരു ഫേസ് തിനുശേഷം അടുത്ത ഫേസിൽ വൈകല്യങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് പറയട്ടെ രണ്ട് ഫേസ് ങ്ങൾ മാത്രം ബാധിക്കപ്പെടുന്നു 2 ഫേസ് പ്രമാണങ്ങൾ മാത്രം മാറ്റേണ്ടതുണ്ട് എന്നാൽ റുക്വിർമെൻറ് സ്പെസിഫിക്കേഷൻ ഫേസിൽ ഒരു തകരാറുണ്ടെന്നും അത് ടെസ്റ്റിംഗ് ഫേസിൽ കണ്ടെത്തിയതാണെന്നും പറയട്ടെ ആവശ്യാനുസരണം പ്രമാണം മാറ്റേണ്ടതുണ്ട് ഡിസൈൻ മാറ്റേണ്ടതുണ്ട് കോഡ് മാറ്റേണ്ടതുണ്ട് ഇവ ധാരാളം പ്രവർത്തനങ്ങൾ കൂടാതെ ധാരാളം പ്രമാണങ്ങൾ മാറ്റേണ്ടതുണ്ട് അതിനാലാണ് വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഫേസ് വൈകുന്തോറും അത് പരിഹരിക്കുന്നതിന്റെ ചിലവു വര്ധിക്കുന്നതു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മാത്രമല്ല ഇത് ഫേസ് കോൺടൈൻമെൻറ് ഓഫ് ഇർറോർസ് എന്നും അറിയപ്പെടുന്നു അതിനാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വൈകല്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ മുമ്പത്തെ ഫേസ് ങ്ങളിലെ പ്രവർത്തി വീണ്ടും ചെയ്യുക അതിനാൽ ധാരാളം ഇടയിലുള്ള ഫേസ് ങ്ങൾ ഉണ്ടെങ്കിൽ വൈകല്യം കണ്ടെത്തുന്നതിന് മുമ്പ് അത് പല ഫേസ് ങ്ങളിൽ മറികടന്ന് ഉണ്ടെങ്കിൽ ധാരാളം പുനർനിർമ്മാണം ആവശ്യമാണ് ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മോഡലിൽ പ്രാചീന വാട്ടർഫാൾ മോഡലിൻ്റെ വളരെ സാമ്യമുണ്ട് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ വാട്ടർഫാൾ മോഡൽ കാണാൻ കഴിയും അത് കൂടാതെ ഫീഡ്ബാക്ക് പാതകളും ഉണ്ട് ഈ ഫീഡ്ബാക്ക് പാതകൾ പ്രാചീന മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാതൃകയെ യാഥാർത്ഥ്യമാകുന്നു പ്രാചീന മാതൃകയിൽ ഒരു ഫേസ് പൂർത്തിയാകുകയും അതിനു ശേഷം അടുത്തഫേസ് പൂർത്തിയാവുകയും അങ്ങിനെ പോകുന്നു ടെസ്റ്റിംഗ് ഫേസ് ൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തകരാർ ഉണ്ടാകുമെന്ന് നമ്മളിവിടെ അനുമാനിക്കുന്നു നമ്മൾ ഡിസൈൻ ഫേസ് അല്ലെങ്കിൽ റുക്വിർമെൻറ് അനാലിസിസ് ഫേസിൽ തിരികെ പോകേണ്ടതുണ്ട് തുടർന്ന് ആ തകരാർ പരിഹരിക്കുക മാത്രമല്ല പിന്നീടുള്ള ഫേസ് ങ്ങളിൽ ജോലി ശരിയാക്കുകയും ചെയ്യും നമ്മൾ പറഞ്ഞത് പോലെ പിശകുകൾക്ക് ഒരു പ്രധാന ആശയം ഇതാണ് ഡെവലപ്പർമാർ തെറ്റുകൾ വരുത്തുമ്പോൾ അത് അതേ ഫേസ് ൽ തന്നെ അവ പരിഹരിക്കപ്പെടണം അത് വൈകല്യങ്ങൾ കണ്ടെത്തി ആദ്യഫേസ് ത്തിൽ തന്നെ പരിഹരിക്കപ്പെടും ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈകല്യം കണ്ടെത്തുന്നതിന് കൂടുതൽ കാലതാമസം സംഭവിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ചെലവേറിയത് ആയിരിക്കും ഡിസൈൻ ഫേസ് ത്തിൽ തന്നെ ഒരു ഡിസൈൻ തകരാർ കണ്ടെത്തിയാൽ അത് ഡിസൈൻ പ്രമാണം മാറ്റേണ്ടതുണ്ട് പക്ഷേ ടെസ്റ്റിംഗ് ഫേസിൽ കണ്ടെത്തിയാൽ ഡിസൈൻ പ്രമാണം മാത്രമല്ല കോഡ് നിർമ്മിക്കേണ്ടതുണ്ട് കൂടുതൽ ചിലവേറിയ ആയിരിക്കും അതിനാൽ ഇതിനെ പിശക് കളുടെ ഫേസ് ഉൾക്കൊള്ളൽ എന്ന് വിളിക്കുന്നു ഇത് ഒരു പ്രധാന തത്വമാണ് ആണ് ഒരിക്കൽ തെറ്റ് സംഭവിക്കുകയോ ചെയ്താൽ ഇത് അതേ ഫേസ് ത്തിൽ തന്നെ അടങ്ങിയിരിക്കണം ഇത് ഫേസ് കോൺടൈൻമെൻറ് ഓഫ് ഇർറോർസ് എന്നും അറിയപ്പെടുന്നു പിശകുകൾ അതിൻറെ ആമുഖ സ്ഥാനത്തോടെ അടുത്ത കണ്ടെത്തുന്നതിനുള്ള തത്വത്തെ ഫേസ് കോൺടൈൻമെൻറ് ഓഫ് ഇർറോർസ് എന്ന് വിളിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വവും വളരെ അവബോധജന്യവുമാണ് അതിനാൽ ഇതാണ് ആവർത്തന വാട്ടർഫാൾ മോഡലിൻ്റെ മാതൃക ഫീഡ്ബാക്ക് പാതകൾ ലഭ്യമാണ് എന്ന് ഒഴിച്ചാൽ ഫേസ് ങ്ങൾ പ്രാചീന മാതൃകക്കു സമാനമാണ് എല്ലാ ഡെവലപ്പർമാർ ഈ മാതൃക വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും കഴിയും എന്നു മനസ്സിലാക്കാൻ വളരെ അവബോധജന്യമാണ് എന്നതാണ് വാട്ടർഫാൾ മോഡലിൻ്റ പ്രധാന ശക്തി മൈൽസ്റ്റോണ്സ് ടീം വ്യക്തമായി മനസ്സിലാക്കുന്നു പ്രോജക്റ്റ് മാനേജർ പുരോഗതി എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയും ഇത് ആവശ്യമായ സ്ഥിരത നൽകുന്നു മാനേജ്മെൻറ് പ്രോജക്റ്റ് മാനേജർക്ക് ശക്തമായ നിയന്ത്രണം പട്ടിക ചെയ്ത മൈൽസ്റ്റോണ്സ്കളും നിരീക്ഷണവും നൽകാം പക്ഷേ അതിന് ധാരാളം കുറവുകൾ ഉണ്ട് വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു പ്രധാന പ്രശ്നം പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ അനുയോജ്യമല്ല എന്നതാണ് എന്നാൽ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയർ പ്രോജക്ടുകളും ആവശ്യകതകൾ മാറുന്നു ആവശ്യകത മാറുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രോജക്റ്റിൻറെ തുടക്കത്തിൽ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാത്തതിനാലോ അല്ലെങ്കിൽ ചിന്തിക്കാത്തതിനാലോ ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് ഉപഭോക്താവ് ചിന്തിച്ചിരിക്കില്ല പക്ഷേ പ്രവർത്തനക്ഷമത നോക്കുമ്പോൾ അവന് കഴിയും ചില ഫംഗ്ഷനുകൾ ആവശ്യമാണ് മറ്റൊന്ന് വികസനം നടക്കുമ്പോൾ ബിസിനസ് തന്നെ ചില മാറ്റങ്ങൾക്ക് വിധേയമായേക്കാം അതിനാൽ മാറ്റങ്ങൾ ആവശ്യമാണ് അതിനാൽ സോഫ്റ്റ്വെയറിൻറെ വികസന സമയത്ത് മാറ്റങ്ങൾ ആവശ്യമായി വരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ വാട്ടർഫാൾ മോഡലിൻ്റെ ത്തിന് മാതൃകയിൽ ആവശ്യകതകൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും പിന്നീട് ഡിസൈൻ കോഡിംഗ് പരിശോധനയും നടത്തുകയും ചെയ്യുന്നു കൂടാതെ വാട്ടർഫാൾ മോഡലിൻ്റെ മാതൃക മാറ്റങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല ഇല്ല ഇത് ഒരുപക്ഷേ വാട്ടർഫാൾ മോഡലിൻ്റെ ത്തിന് മാതൃകയുടെ ഏറ്റവും വലിയ പോരായ്മയാണ് മറ്റു പോരായ്മകൾ ഇവിടെ ധാരാളം പ്രമാണങ്ങളൾ നിർമ്മിക്കപ്പെടുന്നു ഫേസ് ങ്ങൾ പൂർത്തിയായി ആയി ഡിസൈൻ പൂർണമായ രേഖകൾ നിർമ്മിക്കുന്നു കോഡ് പൂർത്തിയായി പക്ഷേ ടെസ്റ്റിംഗ് ഫേസിൽ മിക്ക ആവശ്യകതകളും പാലിച്ചില്ലെന്ന് കണ്ടെത്തി അതിനാൽ പുരോഗതിയെക്കുറിച്ച് തെറ്റായ ധാരണയാണ് പ്രോജക്റ്റ് മാനേജർക്ക് ലഭിക്കുന്നത് പദ്ധതിയനുസരിച്ച് പ്രോജക്ട് മികച്ച രീതിയിൽ മുന്നേറുകയാണ് പക്ഷേ ടെസ്റ്റിംഗ് ഫേസിൽ വളരെ കുറച്ചു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടെത്തുന്നു അതിനുള്ള പ്രധാന കാരണം സംയോജനം അവസാനം വരെ ഒരു മഹാവിസ്ഫോടനം ആണ് അതുവരെ എല്ലാം മികച്ചതായിരുന്നു എന്നാൽ സംയോജന സമയത്ത് മിക്ക പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി ഈ മാതൃകയുടെ മറ്റൊരു പ്രശ്നം ഒരിക്കൽ ഉപഭോക്താവ് ആവശ്യകത നൽകിയാൽ അവർക്ക് അത് കൈമാറുമ്പോൾ അവസാനം വരെ സിസ്റ്റം കാണാനുള്ള അവസരം ഇല്ല ഉപയോക്താക്കൾ ഉൾപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവർ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനക്ഷമത എന്തൊക്കെയാണെന്ന് അവർക്ക് കാണാൻ കഴിയുമായിരുന്നു എങ്കിൽ അവർക്ക് പരിഷ്കാരങ്ങൾ നിർദേശിക്കാൻ കഴിയുമായിരുന്നു വാട്ടർഫാൾ മോഡലിൻ്റെ പ്രധാന ബുദ്ധിമുട്ടുകൾ ഇവയാണ് ആവശ്യകത മാറ്റം കൈകാര്യം ചെയ്യാനുള്ള വഴക്കം ഇല്ല പുരോഗതിയുടെ തെറ്റായ ധാരണ കാരണം ഫേസ് ങ്ങൾ പൂർത്തിയാകുന്നു പക്ഷേ സംയോജനം വലിയ ആഘാതത്തിൽ ആണ് അത് ശ്രദ്ധയിൽപ്പെട്ടാൽ പുരോഗതി വളരെ കുറവാണ് മിക്ക പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നില്ല മാത്രമല്ല ഉപഭോക്ത്യ പങ്കാളിത്തം വളരെ കുറവാണ് ഉപഭോക്താവിന് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയില്ല എന്നാൽ പിന്നീട് വാട്ടർഫാൾ മോഡൽ ജനപ്രിയം ആയിരുന്നു മാത്രമല്ല ഇത് ചിലതരം പ്രോജക്റ്റുകളും വിജയകരമായി ഉപയോഗിക്കുന്നു വാട്ടർഫാൾ മോഡലിനു അനുയോജ്യമായ പ്രോജെക്ടുകളിൽ ആവശ്യകതകൾ നന്നായി മനസ്സിലാക്കുകയും ഉപഭോക്താവിന് അറിയുകയും ചെയ്യുന്നു അവർ സമാനമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അവർക്ക് അറിയാം ഒരു പുതിയതരം സോഫ്റ്റ്വെയറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന ഒന്നല്ല ഇത് ഒരു സാധാരണ സോഫ്റ്റ്വെയർ ആണ് ആവശ്യകതകൾ നന്നായി അറിയപ്പെടുന്നതും സുസ്ഥിരവും ആണ് സാങ്കേതികവിദ്യ മനസ്സിലാക്കുന്നു വികസന ടീമിന് സമാന പ്രോജക്ടുകളിൽ പരിചയമുണ്ട് അതിനാൽ വികസന കൂട്ടം സമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയ പതിവ് പ്രോജക്ട് ആണ് ഈ പ്രോജക്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അവർ അതിൽ ഒന്നുകൂടി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ വെല്ലുവിളികൾ കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ആവശ്യകതകൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിയാം ഒടുവിൽ ഇതിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളെ നന്നായി അറിയാം സാങ്കേതികവിദ്യ മനസ്സിലാക്കുന്നു വികസന ടീമിനെ സമാന പ്രോജക്ടുകളിൽ പരിചയമുണ്ട് ഉണ്ട് അത്തരം ലളിതമായ പ്രോജക്ടുകൾക്ക് വാട്ടർഫാൾ മോഡലിനെ ഉപയോഗിക്കാം മാത്രമല്ല ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗ്ഗമാണിത് പ്രാചീന വാട്ടർഫാൾ മോഡലിനെക്കുറിച് ആവർത്തന വാട്ടർഫാൾ മോഡലിനു ഉപയോഗമുണ്ട് ലളിതമായ പ്രോജക്ടുകൾക്ക് ആയി അവ ഉപയോഗിക്കാം എന്ന് നമ്മൾ കണ്ടു പക്ഷേ പ്രാചീന വാട്ടർഫാൾ മോഡൽ എന്താണ് കാരണം ഇവിടെ ഇതൊരു ആദർശപരമായ മാതൃകയായിരുന്നു എല്ലാ ഫേസ് ത്തിനും ഒരു തകരാറും ഇല്ല എന്ന് അനുമാനിക്കപ്പെട്ടിരുന്നു എന്നാൽ എല്ലാ ഫേസ് ങ്ങളും ആദർശപരമായി മുന്നോട്ടുപോകുന്നു എന്നാൽ ഇതിൻറെ ഉപയോഗം ഒരു പ്രാചീന വാട്ടർഫാൾ മോഡലിൻ്റെ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് പോലെ അന്തിമ പ്രമാണം ദൃശ്യമാകണം എന്നതാണ് തെറ്റുകൾ ഒന്നും ഇല്ല കൂടാതെ പ്രമാണം ആ രീതിയിൽ എഴുതിയട്ടുണ്ടെങ്കിൽ അത് പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഒരു സാമ്യത നൽകുന്നതിന് നമ്മൾ ഒരു ഗണിത ശാസ്ത്ര സിദ്ധാന്തങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചുകുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഗണിതശാസ്ത്രപരമായ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം കൂടാതെ നമ്മൾ പലതവണ പുനർനിർമ്മാണ തെറ്റുകൾ ചെയ്തേക്കാം മുമ്പത്തെ ഫേസ് ത്തിലേക്ക് മടങ്ങുക തുടങ്ങിയവ എന്നാൽ ഈ പ്രശ്നത്തിനുള്ള നിങ്ങളുടെ അന്തിമ പ്രമാണത്തിൽ നിങ്ങൾ എവിടെയാണ് തെറ്റ് ചെയ്തെന്ന് തിരുത്തുകയും മറ്റും ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇത് വളരെ സങ്കീർണമാകും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന മട്ടിൽ നിങ്ങൾക്ക് ശരിയായ നടപടികൾ നൽകുക എന്നതാണ് അടിസ്ഥാനപരമായി പ്രാചീന വാട്ടർഫാൾ മോഡലിൻ്റെ മാതൃകയാണ് എല്ലാ ഫേസ് ങ്ങളും തെറ്റുകൾ കൂടാതെ മുന്നോട്ടുപോകുന്നത് ഇപ്പോൾ നമുക്ക് വി മോഡൽ നോക്കാം ഇത് വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു വകഭേദമാണ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ വാട്ടർഫാൾ മോഡലിൻ്റെചെറിയ ഡെറിവേറ്റീവ് ഉള്ളൂ എന്നാ പ്രവർത്തനങ്ങളും വാട്ടർഫാൾ മോഡൽ പോലെയാണ് ഇപ്പോൾ നമുക്ക് വി മോഡൽ നോക്കാം ജീവിത ചക്രത്തിൽ ഉടനീളമുള്ള സ്ഥിരീകരണമൂല്യനിർണയ പ്രവർത്തനങ്ങൾക്ക് വി മോഡൽ പ്രാധാന്യം നൽകുന്നു വാട്ടർഫാൾ മോഡലിൽ ടെസ്റ്റിംഗ് പ്രവർത്തനം അവസാനം മാത്രമാണെന്ന് നമ്മൾ കണ്ടു തുടക്കത്തിൽ ആവശ്യകതകൾ ഉണ്ട് പിന്നെ ഡിസൈൻ കോഡിങ് ഉണ്ട് പക്ഷേ ടെസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ അവസാനം മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് ടെസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ വളരെയധികം സമയം എടുക്കുന്നത് ടെസ്റ്റിംഗ് ഫേസ് ആരംഭിക്കുന്നത് വരെ അവർ എന്ത് ചെയ്യും എന്നതാണ് മറ്റൊരു പ്രശ്നം വി മോഡൽ അതിന് ഉത്തരം നൽകുന്നു ഇത് സ്ഥിരീകരണത്തിനു മൂല്യനിർണ്ണയത്തിനും പ്രാധാന്യം നൽകുന്നു സാധാരണയായി സോഫ്റ്റ്വെയർ കൂടുതൽ വിശ്വസനീയം എന്ന് കരുതുന്നിടത്തു ഈ മാതൃക ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് വി മോഡൽ ഉപയോഗിക്കുന്ന നിർണായക ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇവിടെ വികസനത്തിന് ഓരോ ഫേസ് ത്തിലും ചില ടെസ്റ്റ് പ്രവർത്തനങ്ങൾ ഉണ്ട് ടെസ്റ്റ് കേസുകൾ ആസൂത്രണം ചെയ്യുകയും പിന്നീട് അവ നടപ്പിലാക്കുകയും ചെയ്യാം പക്ഷേ ഓരോ ഫേസ് ത്തിലും ചില ടെസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനാൽ വി മോഡലിൻറെ ഡയഗ്രമാറ്റിക് പ്രാതിനിധ്യം ഇവിടെ മോഡൽ പ്രാതിനിധ്യം ഒരു വി പോലെ കാണപ്പെടുന്നു അതിനാലാണ് ഇതിനെ വി മോഡൽ എന്ന് വിളിക്കുന്നത് ആവശ്യകത വ്യക്തമാക്കുന്ന സമയത്ത് സിസ്റ്റം ടെസ്റ്റ് കേസുകൾ വികസിപ്പിച്ചെടുക്കുന്നു അവ ഉയർന്ന തലത്തിലുള്ള ഡിസൈൻ സമയത്ത് സിസ്റ്റം ടെസ്റ്റിംഗ് സമയത്ത് നടപ്പിലാക്കുന്നു ഇന്റഗ്രേഷൻ ടെസ്റ്റ് കേസുകൾ വികസിപ്പിച്ചെടുക്കുന്നു അവ കോഡിംഗ് പൂർത്തിയാക്കിയതിനുശേഷം യൂണിറ്റ് പരിശോധനയ്ക്കിടെ ഉപയോഗിക്കുന്നു സ്ഥിതികരണത്തിനും മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്നുണ്ടെന്നും ഓരോ ഫേസ് ത്തിലും ചില ടെസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതു വാട്ടർഫാൾ മോഡലിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൽ സംയോജനത്തിലും സിസ്റ്റം പരിശോധനയിലും മാത്രം ടെസ്റ്റിംഗ് പരീക്ഷണ പ്രവർത്തനങ്ങൾ നടന്നതായും നിങ്ങൾക്ക് കാണാൻ കഴിയും ആവശ്യകത വിശകലനത്തിൽ ടെസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്ന സിസ്റ്റം എന്താണെന്ന് ഇവിടെ ഈ സ്ലൈഡ് പറയുന്നു സ്പെസിഫിക്കേഷൻ സിസ്റ്റം ടെസ്റ്റ് കേസ് ഡിസൈൻ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു ഉയർന്ന തലത്തിലുള്ള ഡിസൈൻ ഇന്റഗ്രേഷൻ ടെസ്റ്റ് ഡിസൈൻ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു ഈ മോഡലിന് കരുത്ത് സ്ഥിരീകരണത്തിനു മൂല്യനിർണ്ണയത്തിനും പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇത് വാട്ടർഫാൾ മോഡലിൻ്റെ ത്തിൻറെ മാതൃകക്കു സമാനമാണ് ഓരോ ഫേസ് ത്തിലും ചില സ്ഥിതീകരണം മൂല്യനിർണയ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഒഴിച്ചാൽ എന്നാൽ ഇവിടെ വാട്ടർഫാൾ മോഡലിൻ്റെ ത്തിന് മാതൃകപോലെ നിരവധി ബലഹീനതകൾ ഉണ്ട് ഫേസ് ങ്ങൾ ഓവർ ലാപ് ചെയ്യുന്നതിന് ഇത് പിന്തുണയ്ക്കുന്നില്ല ഒരു ഫേസ് പൂർത്തിയായതിനു ശേഷം അടുത്ത ഫേസ് ആരംഭിക്കുകയൊള്ളു ഡെവലപ്പർമാരിൽ ചിലർ ആദ്യം പൂർത്തിയാക്കിയാൽ അവർ മറ്റുള്ളവർക്കായി നിഷ്ക്രിയമായി കാത്തിരിക്കണം അല്ലെങ്കിൽ അവർക്ക് അടുത്തഫേസ് ആരംഭിക്കാൻ കഴിയും പക്ഷേ ഈ മാതൃക അത് അനുവദിക്കുന്നില്ല എല്ലാ ഫേസ് ങ്ങളും പൂർത്തിയാകുന്നത് വരെ അവർ കാത്തിരിക്കുന്നു അതിനുശേഷം മാത്രമേ അവർക്ക് അടുത്തഫേസ് ആരംഭിക്കാൻ കഴിയൂ പിന്നീടുള്ള മാറ്റ ആവശ്യകതകൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളുന്നില്ല ഫലപ്രദമായ റിസ്ക് കൈകാര്യം ചെയ്യലിന് പിന്തുണ നൽകുന്നില്ല അതിനാൽ ഇവ വി മോഡലിൻറെ ചില പ്രശ്നങ്ങളാണ് പക്ഷേ ഉയർന്ന വിശ്വാസ്യത ആവശ്യമുള്ള സിസ്റ്റങ്ങൾ കായുള്ള സ്വാഭാവിക തെരഞ്ഞെടുപ്പാണ് ഇത് കൂടാതെ എല്ലാ ആവശ്യകതകളും മുൻകൂട്ടി അറിയുകയും സാങ്കേതികവിദ്യ അറിയുകയും ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു ഇനി പ്രോട്ടോ ടൈപ്പിംഗ് മോഡൽ നോക്കാം അത് അടിസ്ഥാന വാട്ടർഫാൾ മോഡലിൻ്റ ഒരു ചെറിയ വ്യതിയാനമാണ് പ്രോട്ടോടൈപ്പിംഗ് മാതൃകയുടെ ഡയഗ്രമാറ്റിക് പ്രാതിനിധ്യം പരിശോധിച്ചാൽ ഇവിടെ പ്രാരംഭ ഫേസ് പ്രോട്ടോടൈപ്പ് നിർമാണമാണ് അതിനുശേഷം ഡിസൈൻ കോഡിങ് തുടങ്ങിയവ നടപ്പിലാക്കുന്നു ഇവിടെ വാട്ടർഫാൾ മോഡലിൻ്റെ ത്തിലെ മാതൃകപോലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥ വികസനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രവർത്തന പ്രോട്ടോടൈപ്പ് നിർമ്മിക്കണം എന്താണ് ഒരു പ്രോട്ടോടൈപ്പ് പരിമിതമായ പ്രവർത്തനക്ഷമതയും കുറഞ്ഞ വിശ്വാസ്യതയും ഉള്ള സിസ്റ്റത്തിന് കളിപ്പാട്ട നടപ്പാക്കലാണ് പ്രോട്ടോടൈപ്പ് ഒരു സിസ്റ്റം വികസിപ്പിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് എന്തുകൊണ്ടാണ് ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കേണ്ടത് എന്നതാണ് ചോദ്യം പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിന് ഗുണങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കേണ്ട എല്ലാ ആവശ്യകതകളും എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും എന്തെങ്കിലും ആവശ്യകതകൾ കാണുന്നില്ലെങ്കിൽ ഉപയോക്താവിന് പ്രോട്ടോടൈപ്പ് നോക്കാൻ കഴിയുമെങ്കിൽ നഷ്ടമായ ആവശ്യകതകൾ എന്താണെന്ന് എന്ന് നമുക്ക് കണ്ടെത്താനാകും ഉപഭോക്താവും ആയി ഒരു മെച്ചപ്പെട്ട ആശയവിനിമയം ഉണ്ട് ഒരു ഉപയോക്ത്യാ പങ്കാളിത്തവും ഉണ്ട് കാരണം പ്രാചീന അല്ലെങ്കിൽ ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ആവശ്യകത കൾക്ക് ശേഷം നൽകപ്പെടുന്ന ഒരേയൊരുകാര്യം ഉപഭോക്താവ് ഇവിടെ ഡെലിവറി ചെയ്ത സോഫ്റ്റ്വെയർ ഈ മാതൃക വിപരീതമായി കാണുന്നു കൂടാതെ ഉപയോക്താവിന് അവൻറെ അഭിപ്രായങ്ങൾ നൽകുകയും നില നിൽക്കുകയും ചെയ്യുന്നതിനാൽ ഇത് പ്രമാണം കുറയ്ക്കുകയും പരിപാലന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു വികസന സംഗമം പ്രതീക്ഷിക്കുന്ന സാങ്കേതിക അപകടസാധ്യതകൾ ഉണ്ടെങ്കിൽ പ്രോട്ടോടൈപ്പ് നിർമാണത്തിലൂടെ അവർക്ക് അപകടസാധ്യതകൾ പരിഹരിക്കാനാകും സോഫ്റ്റ്വെയർ എങ്ങനെയായിരിക്കുമെന്ന് ഇൻപുട്ട് ഡാറ്റ ഫോർമാറ്റുകൾ സന്ദേശങ്ങൾ റിപ്പോർട്ടുകൾ സംവേദന്മക ഡയലോഗുകൾ എന്തായിരിക്കുമെന്ന് ഉപഭോക്താവിന് വിശദീകരിക്കുക എന്നതാണ്പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കാനുള്ള കാരണം ഉൽപന്ന വികസനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ലമാർഗ്ഗമെന്തെന്ന് ഡെവലപ്പർമാർക്ക് പരീക്ഷിക്കാനും കണ്ടെത്താനും കഴിയും ചിലപ്പോൾ പ്രധാന തീരുമാനങ്ങൾ ഹാർഡ്വെയർ കൺട്രോളറിന്റെ പ്രതികരണ സമയം പോലുള്ള പ്രശ്നങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഡിസൈനർമാർക്ക് ഹാർഡ്വെയറിനെ അടിസ്ഥാനമാക്കി പരിഹാരം കാണാൻ കഴിയും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും തുടരുന്നതിനെ കാളും ഹാർഡ്വെയർ കൺട്രോളർറിന്റെ പ്രതികരണ സമയം മന്ദഗതിയിലായിരുന്നു അവർ എല്ലാം മാറ്റേണ്ടി വരുന്നു അതിനാൽ ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നത് ഉപഭോക്താവിനെ ഫീഡ്ബാക്ക് നേടുന്നതിനു സഹായിക്കുന്നു കൂടാതെ നിരവധി സാങ്കേതിക പ്രശ്നങ്ങളും വ്യക്തമാക്കുകയും വികസന ശരിയായി മുന്നോട്ടു പോകുകയും ചെയ്യും ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്ത കഴിഞ്ഞാൽ അത് ഉപഭോക്താവിന് ചിത്രീകരിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെറിയപ്പെട്ടകയും യഥാർത്ഥ സിസ്റ്റം വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു നല്ല സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിൽ വളരെയധികം മുന്നോട്ട് പോകുന്ന പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിൽ വികസന ടീമിന് ലഭിക്കുന്ന അനുഭവം ഇവിടെ പ്രോട്ടോ ടൈപ്പിംഗ് മാതൃകയിൽ ആദ്യം ഏകദേശ ആവശ്യകതകൾ ലഭിക്കുന്നു ഒരു ദ്രുത രൂപകൽപന നിർമ്മിക്കുന്നു തുടർന്ന് വിവിധ കുറുക്കുവഴികൾ ഉപയോഗിച്ച് പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നു കുറുക്കുവഴികൾ കാര്യക്ഷമമല്ലാത്ത കൃത്യമല്ലാത്ത അല്ലെങ്കിൽ ഡമ്മി ഫംഗ്ഷനുകൾ പോലെ ആകാം യഥാർത്ഥ കണക്ക് കൂട്ടിനായി കോഡ് എഴുതുന്നതിനേക്കാൾ ഒരു പട്ടിക തിരയലാണ് ഈ ഡയഗ്രാം തുടക്കത്തിൽ ശേഖരിച്ച് ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഒരു രൂപകൽപന നടക്കുന്നു എന്ന് നമുക്ക് പ്രതിനിധീകരിക്കാൻ കഴിയും ഉപഭോക്ത്യ ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കി മൂല്യനിർണയത്തിന് ആയി ഉപഭോക്താവിന് സമർപ്പിച്ചു ആവശ്യകതകൾ വീണ്ടും പരിഷ്കരിക്കുക പ്രോട്ടോടൈപ്പിൽ മാറ്റം സംതൃപ്തരാക്കുകയും ചെയ്യുന്നതുവരെ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് ഒരു വാട്ടർഫാൾ മോഡലിനെ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു ചെറിയ വ്യതിയാനമാണ് ഇവിടെ ചേർത്ത പ്രാരംഭ പ്രോട്ടോടൈപ്പ് നിർമ്മാണം മാത്രമാണ് പ്രോട്ടോടൈപ്പ് ഒരു ആവശ്യകത സവിശേഷത അനിമേറ്റു ചെയ്ത ആവശ്യകത സ്പെസിഫിക്കേഷൻ ആയതിനാൽ ഒരു റുക്വിർമെൻറ് സ്പെസിഫിക്കേഷൻ ഡോക്യൂമെൻറ് ആവശ്യമില്ലായിരിക്കാം എന്നാൽ ഉപയോക്താവിന് പ്രദർശിപ്പിക്കുന്നതിന് ടൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വ്യക്തമായിരിക്കേണ്ട ഒരുകാര്യം പ്രോട്ടോ ടൈപ്പിംഗ് മോഡലിലാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്രോട്ടോടൈപ്പ് വലിച്ചെറിയുകയും വികസനം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രോട്ടോടൈപ്പ് നിർമ്മാണം ചെലവ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ ചിലവേറിയ ആയിത്തീരുകയും ചെയ്യുന്നുണ്ടോ പരിഹരിക്കപ്പെടാത്ത സാങ്കേതിക പ്രശ്നങ്ങളുടെ ഉപയോക്ത്യ ആവശ്യ കത്കൾക്കുള്ള നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിംഗ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗമാണ് ഒരു പ്രോട്ടോ ടൈപ്പ് ഇല്ലാതെ നമുക്ക് സോഫ്റ്റ്വെയർ പലതവണ മാറ്റേണ്ടി വരാം മാത്രമല്ല ഇത് കൂടുതൽ ചിലവേറിയ ആയിരിക്കുകയും ചെയ്യും വൻതോതിൽ പുനർ രൂപകല്പനചെയ്ത ചെലവുകൾ പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിന് ഒരു ചെറിയ മുൻകൂറായി ചെലവ് ഉണ്ടെങ്കിലും അത് കൂടുതൽ ഫലപ്രദമായി ചെലവ് കുറഞ്ഞതായിരിക്കും പക്ഷേ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കാതെ അവസാനം ഉപഭോക്താവിന് വളരെയധികം അസംതൃപ്തി ഉണ്ടെന്നും നിരവധി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നും സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്ത ഫലമായി ആയി നിരവധി മാറ്റങ്ങൾ നടത്തേണ്ടി വരും ഈ ചർച്ചയിലൂടെ നമ്മൾ ഇവിടെ നിർത്തി അടുത്ത പ്രഭാഷണത്തിൽ കുറച്ച് ജീവിതചക്രം മാതൃകകൾ ചർച്ച ചെയ്യുന്നത് തുടരും